തുടർ ചാർജ് വിന്യാസത്തിന്റെ എനർജി 1I ഒരു ഉദാഹരണം ഒരു തുടർച്ചയായ ചാർജ് വിന്യാസമുണ്ടെങ്കിൽ അതിന്റെ എനർജി അഥവാ അതിലെ ചാർജുകൾ കൂട്ടിച്ചേർക്കുന്നതിനായി ചെയ്യേണ്ടി വരുന്ന വർക്ക് എത്രയാണെന്ന് ഇതിനു മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടുകഴിഞ്ഞു ഇത് ആയിരിക്കും അടുത്തതായി നമ്മൾ ഇത്തരം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വരുന്ന ഒരു ഉദാഹരണം വിശകലനം ചെയ്യുകയാണ് ഇതിനായി നമ്മൾ ഉൾഭാഗത്ത് സമമായി ചാർജ് വിന്യാസം ഉള്ള റേഡിയസ് R ആയിട്ടുള്ള ഒരു ഗോളമാണ് എടുത്തിരിക്കുന്നത് ചാർജുള്ള ഈ ഗോളത്തിന്റെ ചാർജ് ഡെൻസിറ്റി ആയതുകൊണ്ട് അതിലാകെയുള്ള ചാർജ് ആയിരിക്കും ഇതിന്റെ എനർജി രണ്ടു വിധത്തിൽ ചെയ്യാവുന്നതാണ് എനർജി കാണുന്നതിലൂടെ നിങ്ങൾക്ക് ചാർജ് ഓരോന്നായി കൂട്ടി ചേർക്കുന്നതിന്റെയും നേരത്തെ ഞാൻ എഴുതിയ ഫോർമുലയുടെയും സമാനത മനസിലാക്കാവുന്നതാണ് ആദ്യം നമുക്ക് ചാർജ് ഓരോന്നായി ചേർക്കുന്ന രീതി സങ്കൽപ്പിക്കാം അങ്ങനെ ഒരു r റേഡിയസുള്ള ഗോളം ലഭിച്ചുകഴിഞ്ഞാൽ അതിനു ഉപരിതലത്തിലായി വീണ്ടും പുതിയ ചാർജ് അതായത് dr തിക്നെസ് അഥവാ കനവും ചാർജ് ഡെൻസിറ്റിയും ഉള്ള ഒരു ഷെൽ കൂടി ചേർക്കുന്നു എന്നും സങ്കല്പിക്കാം ഇതിനായി ചെയ്യേണ്ടി വരുന്ന വർക്ക് എത്രയായിരിക്കും ഇത് r ലുള്ള പൊട്ടെൻഷ്യലിനെ പുതിയതായി കൊണ്ടുവരപ്പെട്ട ചാർജ് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും പുതുതായി കൊണ്ടുവരപ്പെട്ട ഷെല്ലിന്റെ വോളിയം 4r2 dr ഉം അതിലടങ്ങിയിരിക്കുന്ന ചാർജ് 4r2 dr ഉം ആയിരിക്കും ഇവിടെ ബ്ലാക്ക് നിറത്തിൽ കാണിച്ചിരിക്കുന്ന r റേഡിയസുള്ള ചെറിയ ഗോളം കാരണം അതിന്റെ ഉപരിതലത്തിൽ അതായത് r ലുള്ള പൊട്ടെൻഷ്യൽ 140 Or ആണ് അപ്പോൾ വർക്ക് ഗോളത്തിന്റെ ഉള്ളിലുള്ള ചാർജ് Q 4 r 3 3 ആണല്ലോ അപ്പോൾ അപ്പോൾ r dr റേഡിയസുള്ള ചാർജ് വിന്യസത്തിന്റെ എനർജി ഇവിടെ 4 ക്യാൻസൽ ചെയ്ത് ഇക്വേഷൻ ഒന്നുകൂടെ ലളിതമാക്കുകയാണെങ്കിൽ ഗോളത്തിന്റെ ആകെ റേഡിയസ് R ആണെങ്കിൽ ചെയ്യേണ്ടുന്ന വർക്ക് അതായത് R റേഡിയസിൽ ഗോളാകൃതിയിലുള്ള ചാർജ് വിന്യാസത്തിന്റെ എനർജി ലഭിക്കാൻ ഈ ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യണം അതായത് ചാർജ് വിന്യാസം സീറോ മുതൽ R വരെ വ്യാപിപ്പിക്കുന്നതുകൊണ്ട് ഇന്റഗ്രേഷൻ ലിമിറ്റ് 0 R വരെയായിരിക്കണം ഇന്റഗ്രേഷൻ ചെയ്തുവരുമ്പോൾ എന്ന് ലഭിക്കും ചാർജ് വിന്യാസം ഉപയോഗിച്ച് ഇക്വേഷൻ എഴുതിയതിനു പകരം നമുക്ക് ചാർജ് ഉപയോഗിച്ച് എഴുതിനോക്കാം നമുക്കറിയാം അതായത് യുടെ വാല്യൂ എനർജിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിട്യൂട് ചെയ്താൽ ഇവിടെ ന്യൂമെറേറ്ററിലെ 4 ഡിനോമിനേറ്ററിലെ 3 ഇവ ക്യാൻസൽ ചെയ്താൽ ഇതാണ് ചാർജ് ഡെന്സിറ്റി ആയിട്ടുള്ള R റേഡിയസ് ഉള്ള ഒരു ഗോളത്തിന്റെ എനർജി അടുത്തതായി നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ ഉപയോഗി ച്ചും നമുക്ക് എനർജി കണ്ടു നോക്കാം അവിടെ നമ്മൾ കണ്ടിരുന്നു ഇവിടെ അവസാന ഘട്ടത്തിലുള്ള ചാർജ് വിന്യാസം കൊണ്ടുള്ള പൊട്ടൻഷ്യൽ അതുകൊണ്ട് തൊട്ടു മുൻപേ നമ്മൾ എനർജി കാണാൻ ഗോളത്തിനുള്ളിലെ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ V കണ്ടിരുന്നല്ലോ ഇവിടെ V എന്നത് അവസാന ഘട്ടത്തിലുള്ള ചാർജ് വിന്യാസം കൊണ്ടുള്ള പൊട്ടൻഷ്യൽ ആണ് കാരണം ഇവിടെ എടുത്തിരിക്കുന്ന മുഴുവൻ ചാർജ് വിന്യാസം കൊണ്ടുള്ളതാണ് നേരത്തെ ഒരു അസ്സൈൻമെന്റിൽ V കണ്ടുപിടിച്ചത് ഓർക്കുന്നുണ്ടല്ലോ അവിടെ നമുക്ക് എന്ന് ലഭിച്ചു ഇവിടെ r R എന്നെടുത്താൽ എനർജിയുടെ ഇക്വേഷനിൽ V ന്റെ സബ്സ്റ്റിട്യൂഷൻ ചെയ്താൽ ഇവിടെ ഒന്നാമത്തെ പദത്തിൽ dV എന്നത് Q എന്നെടുക്കാം പിന്നെ 3Q 2R എന്നത് കോൺസ്റ്റന്റ് ആണല്ലോ അപ്പോൾ എനർജി ഇവിടെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി വന്നിട്ടുണ്ടോയെന്ന് ഒന്ന് കൂടെ പരിശോധിക്കാം രണ്ടാമത്തെ പദത്തിൽ ½ ½ ഇവ ചേർന്ന് 1 4 ആയിട്ടുണ്ട് കോൺസ്റ്റന്റ് ആയ Q R 3 140 ഇവയും ഇക്വേഷനിൽ വന്നിട്ടുണ്ട് dV യ്ക്കു പകരം 4r2 dr എന്നെടുത്തു ഈ ഇക്വേഷനിൽ 4 ഇവ ഇന്റഗ്രലിന്റെ പുറത്തേക്കെടുത്ത് ഇന്റഗ്രൽ ലിമിറ്റ് സീറോ മുതൽ R വരെ കൊടുത്താൽ അതായത് ഇത് പിന്നെയും മാറ്റിയെഴുതിയാൽ ഇവിടെ 4 R 3 3Q ആണ് അപ്പോൾ അതായത് അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ അതെ റിസൾട്ട് തന്നെ ലഭിച്ചിരിക്കുന്നു അപ്പോൾ ഒരു നിശ്ചിത ചാർജ് വിന്യാസം കാരണമുള്ള എനർജി നമ്മൾ രണ്ടു രീതിയിൽ കണ്ടുപിടിച്ചു ഒന്ന് പുറത്തു നിന്നും ചാർജുകൾ ഓരോന്നായി കൊണ്ടുവന്ന് കൂട്ടിചേർത്ത് ഒരു ചാർജ് വിന്യാസം സൃഷ്ടിക്കുന്നതായി സങ്കൽപ്പിച്ചു അപ്പോൾ സിസ്റ്റത്തിന്റെ എനർജി കാണാനായി നേരത്തെ അവിടെയുള്ള ചാർജ് വിന്യാസം കാരണമുള്ള പൊട്ടെൻഷ്യൽ കണ്ട് അതിനെ പുറത്തുനിന്നും വരുന്ന ചാർജ് കൊണ്ട് ഗുണിച്ചു മുഴുവൻ മേഖലയിലേക്കുമായി ഇന്റഗ്രേറ്റ് ചെയ്തു രണ്ടാമത്തെ രീതിയിൽ നേരിട്ട് 1 2VdVകണ്ടുപിടിച്ചു ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് സംഗ്രഹിക്കാം ചാർജുകളുടെ ഒരു വ്യൂഹമോ ചാർജുകളുടെ വിന്യാസമോ ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന്റെ എനർജി എന്നോ അല്ലെങ്കിൽ എന്നോ എടുക്കാവുന്നതാണ് പോയിന്റ് ചാർജുകളുടെ ചാർജ് വിന്യാസത്തിന്റെ കാര്യം എടുത്താൽ ρ എന്നത് ഡെൽറ്റ ഫങ്ക്ഷൻ ആകുന്നു അപ്പോൾ എനർജി കാണാനുള്ള സമവാക്യം തുടർ ചാർജ് വിന്യാസത്തിൽ നിന്നും പോയിന്റ് ചാർജ് കൊണ്ടുള്ള ചാർജ് വിന്യാസത്തിലേക്ക് രൂപമാറ്റം വരുത്തുമ്പോൾ ഓർക്കാനുള്ള ഒരു പ്രധാന കാര്യം ഇവിടെ dV →0 ആകുമ്പോൾ dV ≠ 0 എന്നുള്ളതാണ് കാരണം പോയിന്റ് ചാർജുകൾ ഡെൽറ്റ ഫങ്ക്ഷൻ ആണ് അതുകൊണ്ട് ചാർജും അതുതന്നെയുമായുള്ള പ്രതിപ്രവർത്തനം ഒഴിവാക്കേണ്ടതാണ് എന്നാൽ തുടർ ചാർജ് വിന്യാസം എടുക്കുമ്പോൾ അതിസൂക്ഷ്മമായ അഥവാ വളരെ ചെറിയ വോളിയത്തിലേക്കാണ് ഇന്റഗ്രേഷൻ നടത്തുന്നതെങ്കിൽ dV → 0 ആയിരിക്കുമെന്ന് ഈ ഫോർമുല ചർച്ച ചെയ്ത അവസരത്തിൽ ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ പോയിന്റ് ചാർജുകൾക്ക് ഇങ്ങനെയായിരിക്കില്ല ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം മനസ്സിൽ പതിഞ്ഞിരിക്കുമെന്നു കരുതുന്നു